നമുക്ക് ഇപ്പോൾ കോഴ്സ് തുടരാം ഇതുവരെ നമ്മൾ വളയങ്ങളുടെ വിവിധ സ്വഭാവസവിശേഷതകൾ പരിശോധിച്ചു ഒരു വളയത്തിലെ ഐഡിയലുകൾ നമ്മൾ കണ്ടു ഇതുവരെ നാം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോഷ്യന്റ് വളങ്ങളെ പറ്റിയുള്ളതാണ് നിങ്ങൾക്ക് ഒരു റിംഗ് R ഉം ഒരു ഐഡിയലും ഉണ്ടെങ്കിൽ R I എന്ന ഈ ജോഡി ഉപയോഗിച്ച് ഒരു പുതിയ റിംഗ് എങ്ങനെ നിർമ്മിക്കാമെന്ന് നമ്മൾ പഠിച്ചു ഇതിനെ കോഷ്യന്റ് റിംഗ് എന്ന് വിളിക്കുന്നു R മോഡ് I കൊണ്ടാണ് അതിനെ സൂചിപ്പിക്കുന്നത് അതിനാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടു പ്രത്യേകതരം ഐഡിയലുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അതിനാൽ പ്രൈം ഐഡിയലുകളും മാക്സിമൽ ഐഡിയലുകളും പഠിക്കുക എന്നതാണ് ഇന്നത്തെ ലക്ഷ്യം ഞാൻ പറഞ്ഞതുപോലെ ഇവ പ്രത്യേക തരം വളയങ്ങളാണ് അതിനാൽ നമുക്ക് ഇത് നിർവചിക്കാം അതിനാൽ R ഒരു വളയവും I ഒരു ഐഡിയലും ആണെന്നിരിക്കട്ടെ അതിനാൽ I റിംഗ് R ന്റെ ഒരു സങ്കലന ഉപഗ്രൂപ്പാണെന്ന കാര്യം ഓർക്കുക നിങ്ങൾ I ന്റെ ഒരു ഘടകത്തെ R ന്റെ ഏതെങ്കിലും ഘടകവുമായി ഗുണിച്ചാൽ നിങ്ങൾ വീണ്ടും ഐഡിയൽ I ൽ അവസാനിക്കും അതിനാൽ ഇതാണ് ഇതിനെ ഐഡിയൽ ആക്കുന്നത് അതിനാൽ ഞാൻ ഇപ്പോൾ നിർവചിക്കാൻ പോകുന്നു I പ്രൈം ആണെന്ന് പറഞ്ഞു ഇനിപ്പറയുന്നവ സംഭവിക്കുകയാണെങ്കിൽ I യിനെ ഒരു പ്രൈം ഐഡിയൽ എന്ന് വിളിക്കുന്നു a b എന്നിവ റിംഗ് ഘടകങ്ങളാണെങ്കിൽ axb ഒരു I ആണ് അതിനാൽ ഞാൻ ab എഴുതുമ്പോൾ ഞാൻ എ ബിക്ക് അടുത്തായി എഴുതാം ഇത് സൂചിപ്പിക്കുന്നത് ഒന്നുകിൽ എ I യിലാണ് അല്ലെങ്കിൽ ബി I യിലാണ് അതിനാൽ എന്താണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് രണ്ട് റിംഗ് ഘടകങ്ങളുടെ ഒരു ഗുണിതഫലം ഐഡിയലിൽ ആണെങ്കിൽ റിംഗ് ഘടകങ്ങളിലൊന്ന് ഐഡിയൽ ആണ് അതിനാൽ ഇത് പ്രൈം നമ്പറുകളുടെ ആശയം നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടതാണ് അതിനാൽ നിങ്ങൾ സ്കൂളിൽ പഠിച്ച പ്രൈം നമ്പറുകളുടെ സാധാരണ ആശയവുമായി ഇതിനുള്ള സമാനത ശ്രദ്ധിക്കുക അതിനാൽ ഇത് എന്തിനാണ് ഇതിന് സമാനമായതെന്ന് ഞാൻ നിങ്ങളോട് പറയാം എന്നാൽ ഇതിനാലാണ് നമ്മൾ ഇതിനെ പ്രൈം ഐഡിയൽ എന്ന് വിളിക്കുന്നത് അതിനാൽ നിങ്ങൾ പ്രൈം നമ്പറുകൾ ഓർക്കുന്നുവെങ്കിൽ അത് p വിഭജിക്കുന്നുവെങ്കിൽ p ഒരു പ്രൈം നമ്പറാണെന്ന് പറയുന്നു p ഒരു പോസിറ്റീവ് സംഖ്യയാണെന്ന് പറയട്ടെ ഇനിപ്പറയുന്നവ സംഭവിക്കുകയാണെങ്കിൽ p പ്രൈം ആണ് p വിഭജിക്കുന്നുവെങ്കിൽ അതിനാൽ നമുക്ക് a b ഉം പൂർണ്ണസംഖ്യകളാണ് p ab യേ വിഭജിക്കുന്നുവെന്നാൽ സൂചിപ്പിക്കുന്നത് p a യേ വിഭജിക്കുന്നു അല്ലെങ്കിൽ b യേ വിഭജിക്കുന്നു നിങ്ങൾ പ്രൈം നമ്പറുകൾ കണ്ട രീതി ഇതായിരിക്കില്ല ഓർക്കുക പ്രൈം നമ്പറുകളും ഘടകങ്ങളില്ലാത്തവയായാണ് നിർവചിക്കപ്പെടുന്നത് അതിനാൽ 2 ഒരു പ്രൈം നമ്പറാണ് 5 ഒരു പ്രൈം നമ്പറാണ് കാരണം അവയ്ക്ക് വ്യക്തമായ രണ്ട് ഘടകങ്ങൾ 1 ഉം പ്രൈം നമ്പറും അല്ലാതെ മറ്റൊരു ഘടകങ്ങളും ഇല്ല അതേസമയം 4 എന്നത് ഒരു പ്രൈം നമ്പറല്ല കാരണം അതിന് 2 എന്ന അധിക ഘടകം ഉണ്ട് എന്നാൽ ആ നിർവചനം നിങ്ങൾ മുമ്പ് കണ്ടേക്കാവുന്ന നിർവചനത്തിന് തുല്യമാണ് അതിനാൽ ഞാൻ ഇപ്പോൾ ആർബിട്രറി വലയത്തിലേക്ക് സാമാന്യവൽക്കരിക്കുന്നത് കൃത്യമായി ഇത് ഉപയോഗിക്കുന്നു അതിനാൽ ഇത് ഉപയോഗിച്ച് നമുക്ക് നിഗമനം ചെയ്യാം അതിനാൽ പി ab യെ വിഭജിക്കുന്നു എന്ന് ഓർമ്മിക്കുക അതിനാൽ സ്കൂളിൽ പഠിച്ച പ്രൈം നമ്പറുകളുടെ സങ്കൽപ്പവുമായി ഞാൻ നിർവചിച്ച പ്രൈം ഐഡിയലുകളെ ബന്ധിപ്പിക്കാൻ ആണ് ഞാൻ ശ്രമിക്കുന്നത് അതിനാൽ ഞാൻ ഇത് ഇതുപോലെ എഴുതട്ടെ ഇംഗ്ലീഷിൽ വിവരിക്കുന്നതിനുള്ള നമ്മുടെ സ്റ്റാൻഡേർഡ് മാർഗ്ഗമാണെങ്കിൽ മാത്രം p എന്നത് ab യെ വിഭജിക്കുന്നു p ab യെ വിഭജിക്കുന്നു പക്ഷേ ഈ കോഴ്സിൽ നമ്മൾ പഠിക്കുന്ന റിംഗ് സൈദ്ധാന്തിക ഭാഷയിൽ ഇതിനർത്ഥം ab ഐഡിയൽ pZ ലാണ് എന്നാണ് P യുടെ എല്ലാ ഗുണിതങ്ങളുടെയും ശേഖരമാണ് p Z എന്ന കാര്യം ഓർക്കുക P ab യെ വിഭജിച്ചാൽ അതിനർത്ഥം ab എന്നത് p യുടെ ഗുണിതമാണ് എന്നാണ് അതിനർത്ഥം ab pZ ലാണ് അതിനാൽ ഇപ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് p a യെ വിഭജിക്കുന്നു അതിനാൽ അതേ ആശയം തന്നെ a pZ ൽ ഉണ്ടെങ്കിൽ മാത്രമേ p a യെ വിഭജിക്കുകയുള്ളൂ അതുപോലെ b pZ ൽ ആണെങ്കിൽ മാത്രമേ p b യെ വിഭജിക്കുകയുള്ളൂ അതിനർത്ഥം നിങ്ങൾ ഇവിടെ കണ്ടത് ഇതാണ് ab p z ൽ ആണെങ്കിൽ ഉള്ള നിഗമനം ആണിത് ab pZ ൽ ആണെങ്കിൽ p എന്നത് ab യെ വിഭജിക്കുന്നു അത് pZ ന് തുല്യമായ ab ആണ് ഇവയിലൊന്ന് സംഭവിക്കണം എന്നതാണ് നിഗമനം അതിനാൽ പ്രൈം ഐഡിയലുകളെ സ്കൂളിൽ നമ്മൾ കണ്ട പ്രൈം നമ്പറുകളുടെ സങ്കല്പത്തിന്റെ സാമാന്യവൽക്കരണമായി കരുതുക അതിനാൽ ഈ കണക്ഷൻ അത് വ്യക്തമാക്കുന്നു അതിനാൽ പൂർണ്ണസംഖ്യകളുടെ വലയത്തിൽ നമുക്ക് ഒരു ഐഡിയൽ nZ ഉണ്ട് Z എന്നത് പ്രൈമിനെ സൂചിപ്പിച്ചാൽ n ഉo പ്രൈം ആണ് അതിനാൽ യഥാർത്ഥത്തിൽ ഞാൻ ഇത് പറയാൻ പാടില്ല അതിനാൽ ഞാൻ ഒരു ദിശയിൽ ഉള്ളത് പറയട്ടെ അതിനാൽ n ഒരു പ്രൈം നമ്പറാണെങ്കിൽ n ഒരു പൂർണ്ണസംഖ്യയാണ് അതിനാൽ n ഒരു പോസിറ്റീവ് നമ്പർ n ഒരു പ്രൈം നമ്പറാണെന്ന് നമുക്ക് അനുമാനിക്കാം കാരണം പ്രൈം നമ്പറുകൾ നിർവചനം അനുസരിച്ച് പോസിറ്റീവ് പൂർണ്ണസംഖ്യകളാണ് n ഒരു പ്രൈം നമ്പറാണെങ്കിൽ nZ ഒരു പ്രൈം ഐഡിയൽ ആണ് ഇത് നിർവചനത്തിൽ നിന്ന് വ്യക്തമാണ് കാരണം n ഒരു പ്രൈം നമ്പറാണെങ്കിൽ ഈ പ്രോപ്പർട്ടി ഉണ്ട് അതിനർത്ഥം n a യെ വിഭജിച്ചാൽ അതായത് അവയിൽ ഏതെങ്കിലും ഒന്നു വിഭജിച്ചാൽ പക്ഷേ അതിനാലാണ് വിഭജനവും ഞാൻ ഇവിടെ വിവരിച്ച ഐഡിയലുകളും തമ്മിലുള്ള ഈ നിഘണ്ടുവും nZ ൽ n ഒരു പ്രൈം നമ്പറാണെങ്കിൽ അതിൻറെ ഗുണിതം nZ ലേക്ക് നീളുന്നു അതിനർത്ഥം n ആ ഗുണിതത്തെ വിഭജിക്കുന്നു കാരണം n ഒരു പ്രൈം നമ്പറായതിനാൽ അവയിലൊന്ന് വിഭജിക്കുന്നു ആ ഘടകം ഐഡിയൽ nZ ൽ ആണ് അതിനാൽ നിർവചനം അനുസരിച്ച് nZ ഒരു പ്രൈം ഐഡിയൽ ആണ് അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ nZ ഒരു പ്രൈം ഐഡിയൽ ആണെങ്കിൽ ഇനിപ്പറയുന്ന കാരണത്താൽ n ഒരു പ്രൈം നമ്പറാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല കൂടാതെ Z ലേ 0 ഐഡിയൽ ഒരു പ്രൈം ഐഡിയൽ ആണ് എന്തുകൊണ്ടാണ് ഇത് ഇത് നിർവചനത്തിന്റെ ഒരു പെട്ടെന്നുള്ള പരിണതഫലമാണ് ഓർക്കുക 0 ഐഡിയലിൽ 0 ഘടകം അടങ്ങിയിരിക്കുന്നു ഇതാണ് ഐഡിയലിനുള്ള എന്റെ നൊട്ടേഷൻ ഈ നൊട്ടേഷനിൽ 0 ഞാൻ ബ്രാക്കറ്റിൽ ഇടുന്നു പക്ഷേ അത് 0 അടങ്ങുന്ന ഒരു സെറ്റ് മാത്രമാണ് എന്നാൽ ഇതാണ് പ്രൈം ഐഡിയൽ ഉണ്ടോയെന്ന് പരിശോധിക്കുന്നതിന് നിങ്ങൾ ചെയ്യേണ്ടത് എ ബി പൂർണ്ണസംഖ്യകളാണ് മാത്രമല്ല ab ഐഡിയൽ 0 ന്റേതാണ് അതിനർത്ഥം ab 0 യ്ക്ക് തുല്യമാണ് കാരണം 0 സൃഷ്ടിക്കുന്ന ഐഡിയലിൽ ഒരു ഘടകം മാത്രമേ ഉള്ളൂ അതിനാൽ ab 0 ന് തുല്യമാണ് എന്നാൽ നിങ്ങൾക്ക് രണ്ട് സംഖ്യകളുടെ ഗുണിതം 0 ആയാൽ a അല്ലെങ്കിൽ b 0 ആയിരിക്കണം ഒരുപക്ഷേ രണ്ടും 0 ആയിരിക്കാം പക്ഷെ ഞാൻ അത് കാര്യമാക്കുന്നില്ല അവയിലൊന്ന് 0 ആണ് അതിനാൽ a 0 ഐഡിയലിലോ അല്ലെങ്കിൽ b 0 ഐഡിയലിലോ ആണ് അതിനാൽ 0 പ്രൈമാണ് അതിനാൽ 0 ഒരു പ്രൈം ഐഡിയലാണ് എന്നതിന്റെ തെളിവാണ് ഇത് അതിനാൽ Z ൻറെ ഐഡിയലുകൾ എല്ലാം ഈ രൂപത്തിലാണെന്ന് ഒരു മുൻ വീഡിയോയിൽ നിന്ന് നമ്മൾ പഠിച്ചു അതിനാൽ യൂക്ലിഡിയൻ ഡിവിഷൻ അൽഗോരിതം ഉപയോഗിച്ചാണ് ഞാൻ ഇത് തെളിയിച്ചത് അതിൽ പൂർണ്ണസംഖ്യകളുടെ വലയത്തിന്റെ ഐഡിയലുകൾ nZ രൂപത്തിലാണുള്ളത് ഇവിടെ n ഒരു നെഗറ്റീവ് അല്ലാത്ത സംഖ്യയാണ് 0 ൻറെ 0Z തീർച്ചയായും അനുവദനീയമാണ് അത് നിങ്ങൾക്ക് 0 ഐഡിയൽ നൽകുന്നു അതിനാൽ നിങ്ങൾക്ക് 0 ഐഡിയൽ 0 ഉം ഐഡിയൽ 1Z ഉം ഉണ്ട് ഇത് മുഴുവൻ റിംഗ് Z ആണ് നിങ്ങൾക്ക് ഐഡിയൽ 2Z 3Z 4Z എന്നിവയുണ്ട് അതിനാൽ ഇവയിൽ ഏതാണ് പ്രൈം നമ്പറുകൾ എന്ന് നമുക്ക് നിർണ്ണയിക്കാം ഇവയിൽ ഏതാണ് പ്രൈം ഐഡിയലുകൾ അതിനാൽ പൂർണ്ണസംഖ്യകളുടെ വലയത്തിലെ എല്ലാ ഐഡിയലുകളും nZ രൂപത്തിലാണെന്ന് നമുക്കറിയാം ഇവിടെ n എന്നത് നെഗറ്റീവ് അല്ലാത്ത സംഖ്യകളാകാം പ്രൈം ഐഡിയലുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഇപ്പോൾ പഠിച്ചുവെന്നതാണ് ചോദ്യം ഇവയിൽ ഏതാണ് പ്രൈം ഐഡിയലുകൾ അതിനാൽ നമുക്ക് 0 ൽ എന്ന് ആരംഭിക്കാം അതിനാൽ n 0 ന് തുല്യമാകുമ്പോൾ nZ ഒരു പ്രൈം ഐഡിയൽ ആണെന്ന് നമ്മൾ ഇപ്പോൾ തെളിയിച്ചു അതിനാൽ ഇത് കുഴപ്പമില്ല അതിനാൽ ഇപ്പോൾ നമുക്ക് മറ്റ് സംഖ്യകൾ നോക്കാം അതിനാൽ നിർവചനത്തിന്റെ ഒരു പ്രധാന ഭാഗം ഞാൻ മറന്നുവെന്ന് ഇപ്പോൾ ഞാൻ ഓർക്കുന്നു അതിനാൽ നമുക്ക് ഇവിടെ തിരികെ പോകാം അതിനാൽ പ്രൈം ഐഡിയൽ I ൻറെ നിർവചനത്തിലേക്ക് നമുക്ക് മടങ്ങാം ഇത് സംഭവിക്കുകയാണെങ്കിൽ I നെ ഒരു പ്രൈം ഐഡിയൽ എന്ന് വിളിക്കുന്നു പക്ഷേ ഞാൻ മറന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ ഞാൻ ചേർക്കുന്നു അതായത് I R ന് തുല്യമല്ല അപ്പോൾ ഇത് സംഭവിക്കുന്നു അതിനാൽ പൂർണ്ണ റിംഗ് എന്ന് വിളിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അത് തീർച്ചയായും ഒരു പ്രൈം ഐഡിയൽ ആണ് പ്രൈം ഐഡിയലുകൾ നിർവചനം അനുസരിച്ച് ശരിയായ ഐഡിയലുകൾ ആണ് അതിനാൽ I R ന് തുല്യമല്ല അനുമാനത്തിൽ ഇതിന് ഈ അവസ്ഥ ഉണ്ട് അതിനാൽ പ്രൈം ഐഡിയലുകൾ ശരിയായ പ്രൈം ഐഡിയലുകളാണെന്ന് എന്ന് നമ്മൾ അനുമാനിക്കും അതിനാൽ നിങ്ങൾ 1 എടുക്കുകയാണെങ്കിൽ ഓർമിക്കുക n 1 ന് തുല്യമായാൽ നിങ്ങൾക്ക് 1Z ലഭിക്കും അത് യഥാർത്ഥത്തിൽ Z ആണ് 1 ന്റെ ഗുണിതങ്ങളാണ് അതെല്ലാം സംഖ്യകളാണ് അതിനാൽ ഇത് ഒരു പ്രൈം ഐഡിയൽ അല്ല കാരണം നിർവചനമനുസരിച്ച് പൂർണ്ണ റിംഗ് എപ്പോഴും ഒരു പ്രൈം ഐഡിയൽ അല്ല N ന് 2 ന് തുല്യം ആയാലോ 2Z ഒരു ഒരു പ്രൈം ഐഡിയൽ ആണ് അതിനാൽ വാസ്തവത്തിൽ n ഒരു പോസിറ്റീവ് സംഖ്യയായിരിക്കട്ടെ n എന്നത് ഒരു പ്രൈം ഐഡിയൽ ആണ് n ഒരു പ്രൈം നമ്പറാണെങ്കിൽ മാത്രം ഇതാണ് ഞാൻ ഇപ്പോൾ തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനാൽ n ഒരു പ്രൈം സംഖ്യയാണെങ്കിൽ മാത്രമേ nZ ഒരു പ്രൈം ഐഡിയൽ ആവുകയുള്ളൂ എന്ന് ഞാൻ അവകാശപ്പെടുന്നു എല്ലാ ഐഡിയലുകളും nZ സൃഷ്ടിച്ചതാണെന്ന് ഓർക്കുക n 0 ന് തുല്യമാണ് നമ്മൾ ഇതിനകം ശ്രദ്ധിച്ചത് ഇത് ഒരു പ്രൈം ഐഡിയൽ ആണെന്നാണ് n 1 ന് തുല്യം ആവുന്നതാണ് പൂർണ്ണ റിംഗ് അതിനാൽ ഇത് ഒരു പ്രൈം ഐഡിയൽ അല്ല ഇപ്പോൾ നമുക്ക് 2 മുതൽ ആരംഭിക്കുന്ന പോസിറ്റീവ് സംഖ്യകളുണ്ട് ഇവയോരോന്നും പ്രൈം ഐഡിയൽ ആണോ എന്ന് നിർണ്ണയിക്കാൻ കഴിയുമെന്ന് ഞാൻ അവകാശപ്പെടുന്നു n ൽ നോക്കിയിട്ടല്ല n ഒരു പ്രൈം നമ്പറാണെങ്കിൽ അത് പ്രൈം ഐഡിയൽ ആണ് n ഒരു പ്രൈം നമ്പറല്ലെങ്കിൽ അത് ഒരു പ്രൈം ഐഡിയൽ അല്ല എന്തുകൊണ്ടാണ് ഇത് ഞങ്ങൾ ഇതിനകം ഒരു വഴി നേരത്തെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ നിങ്ങൾ ഓർക്കുന്നോ n ഒരു പ്രൈം നമ്പറാണെങ്കിൽ nZ ഒരു പ്രൈം ഐഡിയലാണ് അതിനാൽ നിങ്ങൾ മുമ്പത്തെ വീഡിയോ പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ തെളിയിക്കപ്പെട്ടതായി കാണാം അതിനാൽ ഇത് ചെയ്തു കഴിഞ്ഞു അതിനാൽ n ഒരു പ്രൈം നമ്പറാണെങ്കിൽ nZ ഒരു പ്രൈം ഐഡിയലാണെന്ന് നമ്മൾ തെളിയിച്ചു അതിനാൽ നിങ്ങൾക്ക് വീഡിയോയുടെ മുമ്പത്തെ ഭാഗത്തേക്ക് മടങ്ങി ആ തെളിവ് നിങ്ങൾ മനസിലാക്കിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കാനും നമുക്ക് മറ്റ് ദിശയുണ്ടെന്ന് കരുതാനും കഴിയും അതിനാൽ nZ ഒരു പ്രൈം ഐഡിയലാണെന്ന് കരുതുക n ഒരു പ്രൈം നമ്പറാണെന്ന് കാണിക്കണം അതിനാൽ നമുക്ക് അത് ചെയ്യാം അതിനാൽ n ഒരു പ്രൈം നമ്പറല്ലെന്ന് കരുതുക അതിനാൽ ഇപ്പോൾ സ്കൂളിൽ നിങ്ങൾക്ക് പരിചിതമായ പ്രൈം നമ്പറുകളുടെ ഇതര നിർവചനം നമുക്ക് ഉപയോഗിക്കാം ഞാൻ മുമ്പ് എഴുതിയ നിർവചനമല്ല ഇതര നിർവചനം എന്താണ് n ഒരു പ്രൈം നമ്പറല്ലെങ്കിൽ അതിനർത്ഥം n axb ആണ് a b എന്നിവ രണ്ടും n നേക്കാൾ കുറവാണ് ഇത് പ്രൈം അല്ലാത്തതിനെ നിർവചനമാണ് കാരണം ഇതിന് നിസ്സാരമല്ലാത്ത ഘടകമുണ്ട് അതായത് ഒന്ന് n എന്നിവ മാത്രമാണ് ഘടകങ്ങൾ അതിനർത്ഥം ഒരു ഘടകം a ഉണ്ട് എങ്കിൽ വ്യക്തമായും b എന്ന മറ്റൊരു ഘടകവും ഉണ്ട് അതായത് ab n ന് തുല്യമാണ് അതിനാൽ ഇത് n എന്നത് പ്രൈം അല്ലെന്ന് കാണിക്കുന്നു n ന് അത്തരമൊരു ഗുണിത വിഘടനം ഉണ്ട് ab nZ ൽ ഉണ്ടെന്നു ഓർക്കുക കാരണം വ്യക്തമാണ് ab n ന് തുല്യമാണ് അതിനാൽ nZ ൽ തീർച്ചയായും n ഉൾക്കൊള്ളുന്നു അതിനാൽ ab nZ ൽ ഉണ്ട് എന്നാൽ n എന്നത് nZ ആണെന്നത് ഒരു പ്രൈം ഐഡിയലും ab nZ ലും ആയതിനാൽ നമുക്ക് ഒന്നുകിൽ a അല്ലെങ്കിൽ b nZ ൽ ഉണ്ടായിരിക്കണം ഇതാണ് ഞാൻ ഈ വീഡിയോയുടെ ആരംഭത്തിൽ നൽകിയ ഒരു പ്രൈം ഐഡിയലിന്റെ നിർവചനം ഏതെങ്കിലും വളയത്തിൽ നിങ്ങൾക്ക് ഒരു പ്രൈം ഐഡിയലുണ്ടെങ്കിൽ അതിനർത്ഥം റിംഗിലെ രണ്ട് ഘടകങ്ങളുടെ ഒരു ഗുണിതം ഐഡിയലാണെങ്കിൽ ഘടകങ്ങളിലൊന്ന് ഐഡിയലിൽ ഉൾപ്പെടണം അതിനാൽ ab nZ ൽ ആണെങ്കിൽ നിങ്ങൾക്ക് a അല്ലെങ്കിൽ b nZ ൽ ഉണ്ടായിരിക്കണം എന്നാൽ ഇപ്പോൾ അതൊരു പ്രശ്നമാണ് ഇത് അസംബന്ധമാണ് എന്തുകൊണ്ടാണ് ഇത് അസംബന്ധം ആയത് ഇത് അസംബന്ധമായ തിന് കാരണം a എന്നത് n നേക്കാൾ തീർച്ചയായും കുറവും അത് പോസിറ്റീവും ആണ് കാരണം n പോസിറ്റീവ് ആണ് അപ്പോൾ നമ്മൾ a നെ അത് ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു എന്നാൽ n എന്നത് ഒരു പ്രൈം അല്ലാത്ത പോസിറ്റീവ് സംഖ്യയാണെങ്കിൽ നമുക്ക് n നെ രണ്ടു പോസിറ്റീവ് സംഖ്യകളുടെ ഗുണിതമാണെന്നും അവ n നെക്കാൾ കുറവാണെന്നും കരുതാം അതിനാൽ ഇത് സൂചിപ്പിക്കുന്നത് a b nZ ആയിരിക്കില്ല എന്നാണ് കാരണം nZ n ന്റെ ഗുണിതങ്ങളാണ് അതിനാൽ 0 ഉണ്ട് nZ ലെ അടുത്ത സംഖ്യ n ആണ് 0 നും n നും ഇടയിൽ ഒന്നും nZ ൽ ഉണ്ടാകരുത് അതിനർത്ഥം നമുക്ക് ഒരു വൈരുദ്ധ്യമുണ്ട് അതിനാൽ n ഒരു പ്രൈം സംഖ്യയായിരിക്കണം അതിനാൽ നമുക്ക് ഉപസംഹരിക്കാം Z ലെ ഒരു ഐഡിയൽ nZ പ്രൈം ആണെങ്കിൽ n 0 അല്ലെങ്കിൽ ഒരു പ്രൈം നമ്പറാണ് അതിനാൽ n തീർച്ചയായും പോസിറ്റീവ് ആണെന്ന് കരുതുക കാരണം Z ലെ എല്ലാ ഐഡിയലുകളും nZ എന്ന് എഴുതപ്പെടുന്നു ഇവിടെ n എന്നത് നെഗറ്റീവ് അല്ലാത്ത സംഖ്യകളാണ് n 0 അല്ലെങ്കിൽ ഒരു പ്രൈം നമ്പറാണെങ്കിലോ മാത്രം ഇത് പ്രൈം ആണ് അതിനാൽ ഈ മുഴുവൻ വിശകലനങ്ങളും എന്തുകൊണ്ടാണ് നമ്മൾ ഇവയെ പ്രൈം ഐഡിയലുകൾ എന്ന് വിളിക്കുന്നത് എന്നതിൻറെ കാരണങ്ങൾ നിങ്ങൾക്ക് നൽകാനാണ് കാരണം അവ പ്രൈം നമ്പറുകളുടെ ആശയം ശരിയായി സാമാന്യവൽക്കരിക്കുന്നതിനാലാണ് എന്നാൽ ഇവിടെ ഈ അധിക ഐഡിയൽ ഉണ്ട് അതായത് 0 ഐഡിയൽ 0 എന്നത് ഒരു പ്രൈം നമ്പർ എന്ന് വിളിക്കപ്പെടുന്നില്ല പക്ഷേ 0 ഐഡിയൽ ഒരു പ്രൈം ഐഡിയൽ ആണ് അതിനാൽ ഇത് പ്രൈം പൂർണ്ണസംഖ്യകൾ എന്ന ആശയങ്ങളുടെ സങ്കൽപ്പത്തിൽ നിന്ന് വളരെയധികം പ്രചോദിതമാണ് ഇപ്പോൾ നമ്മൾ ഐഡിയലുകളെ മനസിലാക്കുന്നു Z ലെ ഏത് ഐഡിയലുകളാണ് പ്രൈം എന്നും അറിയാം നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം നമ്മൾ ഇപ്പോൾ ചെയ്തതെന്തെന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി 4Z ഒരു പ്രൈം ഐഡിയലല്ലെന്ന് നമുക്കറിയാം അതിനാൽ ഇപ്പോൾ മുതൽ ഞാൻ ഈ ഭാഷ ഉപയോഗിക്കാൻ പോകുന്നു ഞാൻ പറയും ഒരു ഐഡിയലിനെ പ്രൈം അല്ലെങ്കിൽ പ്രൈം അല്ല എന്ന് ഞാൻ ശരിക്കും അർത്ഥമാക്കുന്നത് അത് ഒരു പ്രൈം ഐഡിയൽ ആണ് അല്ലെങ്കിൽ പ്രൈം ഐഡിയൽ അല്ല എന്നു ഞാൻ പറയുമ്പോൾ ഞാൻ ഈ വാക്ക് ഉപയോഗിക്കും കാരണം നമ്മൾ ഇത് തെളിവിൽ കണ്ടതാണ് പക്ഷേ വീണ്ടും ചിത്രീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു 2x2 അതായത് 4 4 എന്നത് 4Z ൽ ആണ് എന്നാൽ 2 4Z ൽ ഇല്ല അതിനാൽ നിർദ്ദിഷ്ട ഉദാഹരണത്തിൽ നമ്മൾ നേരത്തെ നൽകിയതിന്റെ കൃത്യമായ തെളിവാണിത് ഇത് ഇങ്ങനെയാണ് 4Z പ്രൈം അല്ല 5Z 7Z 11Z എന്നിവ പ്രൈമാണ് അതിനാൽ നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം ഇപ്പോൾ മറ്റ് വളയങ്ങൾ നോക്കൂ റിംഗ് പോളിനോമിയൽ റിംഗ് പരിഗണിക്കുക ഭിന്നകസംഖ്യകളാണ് ഗുണകങ്ങളെന്നും നിങ്ങൾക്ക് ഒരു വേരിയബിൾ ഉണ്ടെന്നും പറയാം അതിനാൽ ഇത് നിങ്ങളുടെ R ആയി പരിഗണിക്കുക അതിനാൽ ഈ സാഹചര്യത്തിൽ പ്രൈം ഐഡിയലുകളുടെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് അതിനാൽ പൂർണ്ണസംഖ്യകളുടെ വലയത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ എല്ലാ പ്രൈം ഐഡിയലുകളെയും വർഗ്ഗീകരിക്കുന്നു എല്ലാ പ്രൈം ഐഡിയലുകളെയും അത്തരം വളയങ്ങളിൽ പട്ടികപ്പെടുത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണ് പക്ഷേ നമുക്ക് പ്രൈം ഐഡിയലുകളുടെ ചില ഉദാഹരണങ്ങൾ നോക്കാം ചില പ്രൈം ഐഡിയലുകൾ എന്തൊക്കെയാണ് 0 ഐഡിയൽ പ്രൈം ആണ് ഇത് എളുപ്പമാണ് കാരണം പൂർണ്ണസംഖ്യകളുടെ വലയത്തിലെ 0 ഐഡിയൽ എന്തുകൊണ്ട് പ്രൈമാണ് എന്ന അതേ ആശയം നിങ്ങൾ രണ്ട് പോളിനോമിയലുകൾ എടുക്കുക അവയുടെ ഗുണിതം 0 ആണ് എങ്കിൽ ആ പോളിനോമിയലുകളിൽ ഒന്ന് 0 ആയിരിക്കണം എക്സ് സൃഷ്ടിച്ച ഐഡിയലുകൾ എന്താണ് അവയെ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ബ്രാക്കറ്റുകളിൽ ഒരു ഘടകം ഇടുകയാണെങ്കിൽ ഓർക്കുക അതിനർത്ഥം ഇത് എക്സ് സൃഷ്ടിച്ച ഐഡിയൽ ആണ് എന്നാണ് ഇതും പ്രൈം ആണ് അതിനാൽ ഇത് തെളിയിക്കാം ആദ്യം നമുക്ക് സൃഷ്ടിച്ച ഐഡിയൽ എന്താണെന്ന് ഓർമ്മിക്കാം ഇതെല്ലാം പോളിനോമിയലുകളാണ് ഇത് X ന്റെ ഗുണിതങ്ങളാണ് ക്ഷമിക്കണം അതിന്റെ fX പോളിനോമിയൽ റിംഗിലാണ് X സൃഷ്ടിച്ച ഐഡിയൽ എല്ലാം X ന്റെ ഗുണിതങ്ങളാണ് 5 ന്റെ ഐഡിയലുകളെപ്പോലെ പൂർണ്ണസംഖ്യകളിൽ 5 സൃഷ്ടിച്ച ഐഡിയലുകൾ എല്ലാം 5 ന്റെ ഗുണിതങ്ങളാണ് QX ൽ X സൃഷ്ടിച്ച ഐഡിയൽ എല്ലാം 5 ന്റെ ഗുണിതങ്ങളാണ് പക്ഷേ ഇത് മറ്റൊരു രീതിയിൽ വിവരിക്കാൻ എളുപ്പമാണ് ഇവയെല്ലാം QX ലെ പോളിനോമിയലുകളാണ് അത് X ന്റെ ഗുണിതമാണെങ്കിൽ അതിന്റെ സ്ഥിരമായ പദം 0 ആയിരിക്കണം സ്ഥിരമായ പദം 0 ആണെങ്കിൽ അത് x ന്റെ ഗുണിതമാണ് അതിനാൽ ഓർക്കുക പോളിനോമിയൽ ഇതുപോലെ കാണപ്പെടുന്നു ഒരു X n a n മൈനസ് 1 എക്സ് എൻ മൈനസ് 1 പ്ലസ് എ 1 എക്സ് പ്ലസ് 0 നമുക്ക് ഇത് എക്സ് ഗുണം എക്സ് n 1 പ്ലസ് n 1 എക്സ് n മൈനസ് 2 പ്ലസ് ഡോട്ട് എ 1 എന്ന് എഴുതാം പക്ഷേ a0 ന് എക്സ് എന്ന ഘടകം ഇല്ലാത്തതിനാൽ നിങ്ങൾ a0 പ്രത്യേകം എഴുതേണ്ടതുണ്ട് അതിനാൽ അതിൽ നിന്ന് എക്സ് ഫാക്ടർ എടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അതിനാൽ നിങ്ങൾക്ക് ഇത് ഉണ്ട് അത് a ആണെങ്കിൽ a0 0 ആണെങ്കിൽ അത് X ന്റെ ഗുണിതമാണെങ്കിൽ അത് Xa 0 ന്റെ ഗുണിതമാണെങ്കിൽ അതിനാൽ സ്ഥിരമായ പദം 0 ആണ് ഇത് പ്രൈം ആണ് ഒരാൾക്ക് പെട്ടെന്ന് പരിശോധിക്കാം കാരണം f g എന്നിവ പോളിനോമിയൽ റിംഗ് QX ലെ പോളിനോമിയലുകളാണ് എന്ന് കരുതുക f g എന്നത് X സൃഷ്ടിച്ച ഐഡിയലിൽ ഉണ്ടെന്ന് കരുതുക അതിനർത്ഥം f തവണ g ന്റെ സ്ഥിരമായ പദം 0 ആണ് എന്നാൽ f g എന്നീ രണ്ട് പോളിനോമിയലുകളെ ഗുണിക്കുന്നതിനെക്കുറിച്ചും ഗുണനത്തിൻറെ സ്ഥിരമായ പദം 0 എന്നതിനെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ f ന്റെ സ്ഥിരമായ പദം അല്ലെങ്കിൽ g ന്റെ സ്ഥിരമായ പദം 0 ആയിരിക്കുമെന്ന് കാണാൻ പ്രയാസമില്ല കാരണം ഗുണനത്തിന്റെ സ്ഥിരമായ പദം കേവലം സ്ഥിരമായ പദങ്ങളുടെ ഗുണനമാണ് അതിനാൽ സ്ഥിരമായ പദം അതിനാൽ ഇത് സൂചിപ്പിക്കുന്നത് f g ൻറെ സ്ഥിരമായ പദം പൂജ്യമാണ് എന്നാൽ ഇതിനർത്ഥം fഅല്ലെങ്കിൽ g ന്റെ സ്ഥിരമായ പദം 0 ആണ് അതായത് f എക്സ് സൃഷ്ടിച്ച ഐഡിയലിലാണ് അല്ലെങ്കിൽ g എക്സ് സൃഷ്ടിച്ച ഐഡിയലിലാണ് ഇവ രണ്ടിനും പൂജ്യമല്ലാത്ത സ്ഥിരമായ പദങ്ങൾ ഉണ്ടെങ്കിൽ ഗുണിതത്തിന് പൂജ്യമല്ലാത്ത സ്ഥിരമായ പദം ഉണ്ടാകും കാരണം നിങ്ങൾക്ക് രണ്ട് പൂജ്യമില്ലാത്ത ഭിന്നകസംഖ്യകളുടെ ഗുണിതം ഉണ്ടെങ്കിൽ അത് പൂജ്യമില്ലാത്ത ഭിന്നകസംഖ്യകൾ ആയിരിക്കും അതിനാൽ എക്സ് പ്രൈം ആണ് സമാനമായ ഒരു വാദം ഉപയോഗിച്ച് നിങ്ങൾക്ക് സമാനമായി കാണിക്കാൻ കഴിയും ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രവർത്തനമായി വിടാം ഉദാഹരണത്തിന് X 1 X1 X തുടങ്ങിയവ അതിനാൽ ഞാൻ ഒരു ഉദാഹരണം കൂടി എഴുതാം X 5 X½ എല്ലാം പ്രൈം ആണ് എക്സിനോട് വളരെ സാമ്യമുണ്ട് എന്നാൽ ഇപ്പോൾ നമ്മൾ ഈ ഉദാഹരണത്തിൽ X 1 ന്റെ ഗുണിതങ്ങൾ എടുക്കുന്നു ഈ ഉദാഹരണത്തിൽ നമ്മൾ X1 ന്റെ ഗുണിതങ്ങൾ എടുക്കുന്നു ഈ ഉദാഹരണത്തിൽ നമ്മൾ X5 ന്റെ ഗുണിതങ്ങൾ എടുക്കുന്നു അതിനാൽ അവയെല്ലാം പ്രൈമാണ് ഇത് നിങ്ങൾക്കുള്ള ഒരു പ്രവർത്തനമാണ് മറുവശത്ത് നമുക്ക് മറ്റൊരു ഐഡിയൽ നോക്കാം എക്സ് സ്ക്വയേർഡ് മൈനസ് 1 നെക്കുറിച്ച് എന്താണ് അതിനാൽ എക്സ് സ്ക്വയേർഡ് മൈനസ് 1 ന്റെ എല്ലാ ഗുണിതങ്ങളുടെയും കൂട്ടമാണ് എക്സ് സ്ക്വയേർഡ് മൈനസ് 1 അതിനാൽ ഇത് പ്രൈം അല്ല എന്ന് ഞാൻ അവകാശപ്പെടുന്നു ഇത് ഒരു പ്രൈം ഐഡിയൽ അല്ല എന്തുകൊണ്ട് കാരണം നിങ്ങൾ എക്സ് സ്ക്വയേർഡ് മൈനസ് 1 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻറെ ഫാക്ടർ X1 ഉണ്ട് ഇത് എക്സ് സ്ക്വയേർഡ് മൈനസ് 1 സൃഷ്ടിച്ച ഐഡിയലിൽ ആണ് എന്നാൽ ഇത് എന്റെ മുമ്പത്തെ നൊട്ടേഷനിൽ ഇത് ബിയിലാണ് അതിനാൽ എ ബി എന്നിവയുടെ ഗുണിതം ഇതിലുണ്ട് പക്ഷേ X 1 എക്സ് സ്ക്വയേർഡ് മൈനസ് 1 ലും X1 എക്സ് സ്ക്വയേർഡ് പ്ലസ് 1 ലും ആവില്ല എക്സ് സ്ക്വയേർഡ് മൈനസ് 1 ന്റെ എല്ലാ ഗുണിതങ്ങളും അടങ്ങിയിരിക്കുന്ന എക്സ് സ്ക്വയേർഡ് മൈനസ് 1 സൃഷ്ടിച്ച ഐഡിയൽ എന്ന ലളിതമായ കാരണത്താലാണ് ഇത് അതിനാൽ നിങ്ങൾക്ക് ഏതെങ്കിലും പോളിനോമിയൽ ഉണ്ടെങ്കിൽ അതിന്റെ ഡിഗ്രി 2 ൽ കൂടുതലാകണം അല്ലെങ്കിൽ പോളിനോമിയൽ 0 ആയിരിക്കണം ഈ പോളിനോമിയലിന്റെ ഡിഗ്രി 1 ആണ് അതിനാൽ അവ എക്സ് സ്ക്വയേർഡ് മൈനസ് 1 ന്റെ ഗുണിതങ്ങൾ ആകാൻ പാടില്ല അതിനാൽ നിങ്ങൾ എക്സ് സ്ക്വയേർഡ് മൈനസ് 1 നുള്ളിൽ രണ്ട് ഘടകങ്ങളുടെ ഒരു ഗുണിതം നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ ഈ രണ്ട് ഘടകങ്ങളും എക്സ് സ്ക്വയർ മൈനസ് 1 ൽ ഇല്ല അതിനാൽ ഇത് ഒരു പ്രൈം ഐഡിയൽ അല്ല അതിനാൽ ഇവിടെയാണ് കാര്യങ്ങൾ തന്ത്രപ്രധാനമാകുന്നത് അതിനാൽ മുമ്പത്തെ ഉദാഹരണങ്ങൾ പ്രൈമായിരുന്നതിന്റെ കാരണം നിങ്ങൾക്ക് അവയുടെ ഫാക്ടർ ഏകദേശം കണക്കാക്കാൻ കഴിയില്ല അതിനാൽ ഇപ്പോൾ QX എന്ന അതേ റിംഗിലെ മറ്റൊരു അവസാന ഉദാഹരണം നോക്കാം എക്സ് സ്ക്വയേർഡ് പ്ലസ് 1 നെപറ്റി എന്താണ് ഇത് പ്രൈം ആണ് ഞാൻ ഇപ്പോൾ ഇത് തെളിയിക്കില്ല പിന്നീട് ഇത് തെളിയിക്കാം പക്ഷേ എക്സ് സ്ക്വയർ മൈനസ് 1 നെ ഫാക്ടർ ചെയ്തതുപോലെ നിങ്ങൾക്ക് എക്സ് സ്ക്വയേർഡ് പ്ലസ് 1 നെ ഫാക്ടർ ചെയ്യാൻ കഴിയില്ല അതിനാൽ അത് പ്രൈം ആയി മാറുന്നു അതിനാൽ നമുക്ക് ഐഡിയലുകൾ പൂർത്തിയാക്കാം ഇത് QX ൽ പ്രൈമാണെന്ന് ഞാൻ പറയട്ടെ പക്ഷേ സങ്കീർണ്ണ സംഖ്യകളേക്കാൾ പോളിനോമിയൽ റിംഗിൽ നിങ്ങൾക്ക് ഈ ഐഡിയൽ പരിഗണിക്കാം അതിനാൽ എക്സ് സ്ക്വയേർഡ് പ്ലസ് 1 റിംഗ് CX ൽ പ്രൈം അല്ല എക്സ് സ്ക്വയേർഡ് മൈനസ് 1 ഒരു പ്രൈം അല്ലെന്ന് നമ്മൾ ഇവിടെ കണ്ട അതേ കാരണം തന്നെയാണ് ഇവിടെയും എക്സ് സ്ക്വയേർഡ് പ്ലസ് 1 CX ൽ പ്രൈം അല്ല കാരണം എക്സ് സ്ക്വയേർഡ് പ്ലസ് 1 നെ Xi എന്ന് എഴുതാം ഈ ഫാക്ടറൈസേഷൻ CX ൽ മാത്രമേ സാധുതയുള്ളൂ എന്ന കാര്യം ഓർക്കുക കാരണം Xi CX ൽ ഒരു പോളിനോമിയലാണ് ഇത് QX ലോ RX ലോ ഒരു പോളിനോമിയലല്ല അതിനാൽ QX ൽ ഈ പോളിനോമിയൽ എക്സ് സ്ക്വയേർഡ് പ്ലസ് 1 നെ നിങ്ങൾക്ക് ഫാക്ടർ ചെയ്യാൻ കഴിയില്ല അതിനാൽ ഇത് ഒരു പ്രൈം അല്ല ഇത് നിങ്ങൾക്ക് CX ൽ ഫാക്ടർ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൈം ഐഡിയലാണ് മുമ്പത്തെപ്പോലുള്ള അതേ കാരണത്താൽ എക്സ് സ്ക്വയേർഡ് പ്ലസ് 1 സൃഷ്ടിച്ച ഐഡിയലിലാണ് എക്സ് സ്ക്വയേർഡ് പ്ലസ് 1 പക്ഷേ Xi അല്ലെങ്കിൽ X i എക്സ് സ്ക്വയേർഡ് പ്ലസ് 1 സൃഷ്ടിച്ച ഐഡിയലിലല്ല അതിനാൽ ഇത് CX ലെ ഒരു പ്രൈം ഐഡിയൽ അല്ല അതിനാൽ അതേ ഐഡിയൽ നിങ്ങൾ ഘടക വളയം Q ൽ നിന്ന് R ലേക്ക് മാറ്റുകയാണെങ്കിൽ പ്രൈമിൽ നിന്ന് പ്രൈം അല്ലാതാവും അതിനാൽ ഇത് ഓർമിക്കേണ്ട ഒരു സൂക്ഷ്മമായ പോയിന്റാണ് ഒരു റിങ്ങിൽ ഒരു ഐഡിയൽ പ്രൈമാണെന്ന് നിങ്ങൾ കണ്ടെത്തിയേക്കാം പക്ഷേ ഐഡിയൽ മറ്റൊരു വളയത്തിലെ ഒരു ഐഡിയലായി കണക്കാക്കാം ഏത് വളയത്തിലാണ് അത് പ്രൈം ഐഡിയലായി മാറാതിരിക്കേണ്ടത് അതിൽ അതിനാൽ ഇത് നിങ്ങൾ പരിഗണിക്കുന്ന ഘടക റിംഗിനെ പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ Z മോഡ് 4 Z എന്ന അവസാന ഉദാഹരണത്തിലൂടെ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം Z മോഡ് 8 Z നോക്കാം നമുക്ക് റിംഗ് Z മോഡ് 8 Z എടുക്കാം ഇത് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ നിർവചിച്ച കോഷ്യന്റ് റിംഗ് ആണ് അതിനാൽ 0 ഐഡിയൽ പരിഗണിക്കുക അത് R ൽ പ്രൈം അല്ല അതിനാൽ ഞാൻ ഈ ഉദാഹരണം നൽകുന്നു കാരണം ഈ വീഡിയോയിൽ നമ്മൾ നോക്കിയ എല്ലാ ഉദാഹരണങ്ങളിലും 0 ഐഡിയൽ Z ലെ ഒരു പ്രൈം ഐഡിയൽ ആണ് QX ൽ ഇത് ഒരു പ്രൈം ഐഡിയൽ ആണ് എന്നാൽ ഈ വളയത്തിൽ 0 ഐഡിയൽ പ്രൈം അല്ല എന്തുകൊണ്ട് കാരണം നിങ്ങൾ 2 ബാർ എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ റിങ്ങിലെ ഘടകങ്ങളെ മുകളിൽ ബാർ ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നത് ഓർക്കുക 2 ബാർ ഡോട്ട് 4 ബാർ 8 ബാർ ആണ് ഇത് 0 ബാർ ആണ് ഇത് z ബാർ 0 ബാർ സൃഷ്ടിച്ച ഐഡിയലിലാണ് പക്ഷേ 2 ബാർ 0 ബാർ അല്ല അതുപോലെ 4 ബാർ 0 ബാർ അല്ല കാരണം 2 ഉം 4 ഉം പൂജ്യം അല്ലാത്ത മൊഡ്യൂളോ 8 ആണ് അതിനാൽ അവ പൂജ്യ ഘടകങ്ങളല്ല അതിനാൽ അവ 0 ഐഡിയലിൽ ഉൾപ്പെടുന്നില്ല എന്നിട്ടും അവയുടെ ഗുണിതം 0 ഐഡിയലിലാണ് അതിനാൽ 0 ഐഡിയൽ Z മോഡ് 8 Z റിംഗിലെ ഒരു പ്രൈം ഐഡിയൽ അല്ല അതിനാൽ വൈവിധ്യമാർന്ന ഉദാഹരണങ്ങളുണ്ട് റിംഗ് തിയറിയിൽ പ്രൈം ഐഡിയലുകൾ വളരെ പ്രധാനമാണ് ഇത് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ നിർവചനം മനസിലാക്കുകയും ഈ വീഡിയോയിലെ വിവിധ ഉദാഹരണങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തുവെന്ന് കരുതുന്നു അതിനാൽ ഞാൻ ഇപ്പോൾ വീഡിയോ നിർത്താം അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രൈം ഐഡിയലുകളെക്കുറിച്ചുള്ള പഠനം തുടരുകയും മാക്സിമൽ ഐഡിയലുകൾ എന്ന ആശയം അവതരിപ്പിക്കുകയും ചെയ്യും